അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കൂടുതൽ ആഴത്തിൽ ഗ്രേഡിയന്റും പൊതുവായി ഉപയോഗിക്കുന്ന മറ്റ് ഓപ്പറേറ്റർമാരും എന്ന ആശയം എങ്ങനെ സാമാന്യവൽക്കരിക്കാമെന്ന് നോക്കുകയും ചെയ്യാം ഇപ്പോൾ ഞങ്ങൾ നിർവ്വചിച്ച ഈ ഗ്രേഡിയന്റ് എല്ലായ്പ്പോഴും ഇത് ശരിയാണെന്ന് തോന്നിപ്പിക്കേണ്ടതില്ല നമ്മൾ മൂന്ന് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ എഴുതിയിട്ടുണ്ട് ഞാൻ ഇത് ഇതിനകം എഴുതിയിട്ടുണ്ട് ഞാൻ ഇത് വീണ്ടും എഴുതാം ഇങ്ങനെ ഞാൻ ഒരു ചെറിയ മാറ്റം വരുത്തിയത് ശ്രദ്ധിക്കുക സൌകര്യാർത്ഥം ഞാൻ ഇടത് വശത്ത് യൂണിറ്റ് വെക്റ്ററുകൾ എഴുതി ഇപ്പോൾ ഈ പദപ്രയോഗത്തിൽ ഇവിടെ വീണ്ടും വീണ്ടും f പ്രത്യക്ഷപ്പെടുന്നതായി നിങ്ങൾക്ക് കാണാം അതിനാൽ അമൂർത്തീകരണത്തിന്റെ ഒരു പ്രവൃത്തിയാൽ നമുക്ക് f ഒഴിവാക്കുകയും ഒരു ഓപ്പറേറ്ററെ ശരിയായി നിർവചിക്കുകയും ചെയ്യാം അതിനാൽ എനിക്ക് ഈ ഗ്രേഡിയന്റ് കാര്യം വിളിക്കാം എനിക്ക് നേ ഓപ്പറേറ്റർ എന്ന് വിളിക്കാം അതിനാൽ ഇപ്പോൾ ഈ ഓപ്പറേറ്ററിന് എല്ലായ്പ്പോഴും പ്രവർത്തിക്കാൻ ചില പ്രവർത്തനങ്ങൾ ആവശ്യമാണ് അതിനാൽ ഞാൻ ഇത് ഇവിടെ എഴുതുകയാണെങ്കിൽ അത് ഒരു കാര്യത്തിലും എന്താണ് ചെയ്യുന്നതെന്ന് എന്നോട് പറയുന്നില്ല എന്ന അർത്ഥത്തിൽ ഇത് അപൂർണ്ണമാണ് അതിന് പ്രവർത്തിക്കാൻ ഒരു ശക്തി അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ ഒരു ഫീൽഡ് ആവശ്യമാണ് ഈ സാഹചര്യത്തിൽ ആ ഫീൽഡ് ഒരു സ്കെയിലർ ഫീൽഡാണ് അതിനാൽ ഞാൻ ഇവിടെ പ്ലഗ് ഇൻ ചെയ്യുമ്പോൾ ഈ പ്രയോഗം ഗ്രേഡ് ചെയ്യുക ഞാൻ ഇവിടെ ഏറ്റെടുക്കുകയും f വെക്കുകയും ചെയ്താൽ എനിക്ക് ഈ പദപ്രയോഗം തിരികെ ലഭിക്കും ഇപ്പോൾ ഇവിടെയുള്ള ഈ ഓപ്പറേറ്റർ ഒരു വെക്റ്റർ പോലെയാണ് അതിനാൽ ഇത് വെക്റ്റർ കാൽക്കുലസിന്റെ സാധാരണ നിയമങ്ങൾ അനുസരിക്കുന്നു ഉദാഹരണത്തിന് ഉദാഹരണത്തിന് ഗ്രേഡിയന്റ് അങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയാം അതിനാൽ എനിക്ക് രണ്ട് വെക്റ്ററുകൾക്കിടയിലുള്ള ഡോട്ട് ഉൽപ്പന്നം എടുക്കാം ആദ്യം ഗ്രേഡിയന്റ് പറയട്ടെ അതിനാൽ സ്കേലർ ഫംഗ്ഷനെ ഗ്രേഡിയന്റ് എന്ന് വിളിക്കുന്നു വ്യതിചലിക്കുന്നത് ഇത് രണ്ട് വെക്റ്ററുകൾക്കിടയിലുള്ള ഡോട്ട് ഉൽപ്പന്നമാണ് അതിനാൽ ഇത് ഡോട്ട് ഉൽപ്പന്നം പോലെയാണ് ഇത് ഒരു വെക്റ്ററാണ് എനിക്ക് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാം എന്നാൽ ഇവരിൽ ഒരാൾ ഡെൽ ഓപ്പറേറ്ററായപ്പോൾ ഈ പ്രവൃത്തിയെ വെക്റ്ററിന്റെ വ്യതിചലനംഎന്ന് വിളിക്കുന്നു ഇത് ഒരു ഡോട്ട് ആയിരുന്നു മറ്റൊരു കാര്യം ക്രോസ് ഉൽപ്പന്നമാണ്നമുക്കറിയാം രണ്ടു വെക്ടറുകൾ എടുത്ത് അതിന്റെ ക്രോസ്സ് പ്രോഡക്റ്റ് നിർവചിക്കാൻ കഴിയും എന്ന് അതുപോലെ ഈ രണ്ടും വെക്ടറുകളും ഉപയോഗിച്ചു നമുക്ക് ക്രോസ്സ് പ്രോഡക്റ്റ് നിർവചിക്കാൻ കഴിയും ഇനി ശ്രദ്ധിക്കു ഇവിടെ വെക്ടർ കാൽക്കുലസിന്റെ ഭാഷയിൽ ഈ ക്രോസ്സ് പ്രോഡക്റ്റിനെ നമുക്ക് വെക്ടർ a യുടെ ചുരുൾ എന്ന് വിളിക്കാം Ok നമ്മൾ ഗ്രേഡിയന്റിൽ തുടങ്ങി ഡെൽ ഓപ്പറേറ്റർ എന്താണെന് നിർവചിച്ചു എന്താണ് ഒരു ഡെൽ ഓപ്പറേറ്റർ എന്നാൽ സ്വയം നിലനിൽക്കാൻ ശേഷിയുള്ള ഒന്നാണ് മാത്രമല്ല നമുക്ക് കാണാം അതിന് മൂന്ന് ഘടകങ്ങൾ ആണുള്ളത് അതായത് അതൊരു വെക്ടർ ആണ് ഒരു വെക്ടർ ഉപയോഗിച്ചു എനിക്ക് അതിന്റെ ഡോട്ട് ഉത്പന്നം കണ്ടെത്താം അതിനെയാണ് ഡൈവേർജൻസ്എന്ന് വിളിക്കുന്നത് ഒന്നെങ്കിൽ എനിക്ക് ചുരുൾ എന്നറിയപ്പെടുന്ന ക്രോസ്സ് പ്രോഡക്റ്റ് എടുക്കാം അല്ലെങ്കിൽ സ്കെലാർ പ്രവർത്തനത്തിൽ അതിനെ ഏർപെടുത്താം ഓക്കേ മറക്കരുത് ഇവടെ ഉള്ള ഈ അളവ് സൂചിപ്പിക്കുന്നത് വെക്ടറിനെ ആണ് ശെരിയല്ലേ ഇനി ഇവടെ ഉള്ള അളവ് സ്കെലാർ ആണ് അല്ലെ ഇവിടെയുള്ളതോ അതും വെക്ടർ ആണ് അതിനാൽ ഇവയാണ് മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങളുടെ മുഴുവൻ ഭാഷയും എഴുതുന്ന തരത്തിലുള്ള നട്ട്സ് ബോൾട്ടുകൾ ഇത് ഈ ഓപ്പറേറ്റർമാരിൽ നമുക്ക് കുറച്ച് ആത്മവിശ്വാസം നൽകുന്നു ഇനി നമുക്ക് ഈ ഓപ്പറേറ്റർസിനെ ഓരോന്നായി നോക്കാം ആദ്യത്തെ ഓപ്പറേറ്ററാണ് വ്യതിചലനം വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഞാൻ A എന്ന ഒരു വെക്ടർ എടുത്തു അതിന് മൂന്ന് ഘടകങ്ങൾ ഉണ്ട് അതിനെ ഞാൻ Ax Ay Az എന്നെഴുതി ഇനി ഞാൻ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്കെലാർ മനസ്സിലായോ ഇനി ഈ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ വിവരിക്കാൻ വളരെ മനോഹരമായ ജ്യാമിതീയ അർത്ഥങ്ങൾ ഉണ്ട് വ്യതിചലനം എന്നത് സൂചിപ്പിക്കുന്നത് ഓരോ വെക്ടറും തന്നിരിക്കുന്ന പോയിന്റിൽ നിന്നും എത്രത്തോളം വ്യതിചലിക്കുന്നു എന്നതാണ് അതായത് ഇവൻ അവബോധജന്യമായ ജ്യാമീതീയ ചിത്രങ്ങൾ ആണെന്ന് സാരം ശരി ഇനി നമുക്ക് കുറച്ചു ഉദാഹരണങ്ങൾ നോക്കാം നോക്ക് ഞാൻ പറയുകയാണ് ഇവടെ ഒരു പോയിന്റ് ഉണ്ട് ഇതിനെ നമുക്ക് ഒർജിൻ എന്ന് വിളിക്കാം ശേഷം ഞാൻ ഇവിടെ ഒരു വെക്ടർ ഫീൽഡ് അടയാളപ്പെടുത്താൻ പോവുന്നു ശെരി ഒന്ന് ചോദിക്കട്ടെ എന്താണ് ഈൌ വെക്ടർ ഫീൽഡ് അത് മറ്റൊന്നുമല്ല x y z ഭാഗമായിട്ടുള്ള ഈ ഗോളകൃതിയിലുള്ള കോഡിനേറ്റുകളിൽ വെക്ടറിന്റെ സ്ഥാനത്തെ ആണ് ഇത് സൂചിപ്പിക്കുന്നത് അതായത് ഞാൻ ഇത് ഒർജിനിൽ അടയാളപ്പെടുത്തിയാൽ അതിന്റെ ദിശ എപ്പോഴും എങ്ങോട്ടായിരിക്കും റേഡിയൽ ആയി പുറത്തേക്ക് ആയിരിക്കും അല്ലേ മാത്രമല്ല ഈ ഒർജിനിൽ നിന്നും ഞാൻ അകലേക്ക് നീങ്ങും തോറും ഇതിന്റെ വ്യാപ്തിയും വർദ്ധിക്കും അതിനാൽ അവ ഇതുപോലെ പ്രതിനിധാനം ചെയ്യപ്പെടും ഞാൻ കൂടുതൽ പുറത്തേക്ക് പോകുമ്പോൾ ആരംഭിക്കുക എനിക്ക് കൂടുതൽ ദൈർഘ്യം വരയ്ക്കാനാകും വെക്റ്ററിന്റെ നീളം വ്യാപ്തിയെ സൂചിപ്പിക്കുന്നു അത് എല്ലായ്പ്പോഴും റേഡിയലായി പുറത്തേക്ക് ആണ് അതിനാൽ എല്ലായിടത്തും സ്ഥലത്തിന്റെ ഏത് ഘട്ടത്തിലും അത് പുറത്തേക്ക് ചൂണ്ടിക്കാണിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഘട്ടത്തിൽ ഞാൻ ഇവിടെ കണക്കുകൂട്ടുകയാണെങ്കിൽ വെക്റ്റർ ഫീൽഡ് ഒരു പോയിന്റിൽ നിന്ന് വ്യതിചലിക്കുന്നു അതിനാൽ ഈ വെക്റ്ററിന്റെ വ്യതിയാനം പൂജ്യമല്ലെന്ന് ഞങ്ങൾ അവബോധപൂർവ്വം പ്രതീക്ഷിക്കുന്നു ഞാൻ ഇവിടെ ഏറ്റെടുക്കുകയാണെങ്കിൽ എനിക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും എനിക്ക് ലഭിക്കാൻ പോകുന്നത് 3 ന് തുല്യമാകാൻ പോകുന്നതിനാൽ ഇത് പൂജ്യമല്ലാത്ത അളവാണ് തന്നിരിക്കുന്ന പ്രദേശത്തു സ്ഥിരതയുള്ള ഒരു വെക്റ്റർ ഫീൽഡാണ് എന്റെ അടുത്ത ഉദാഹരണം അതിനാൽ ഇത് z അക്ഷത്തിൽ സ്ഥിരമായിരിക്കും അതിനാൽ ഇത് z അക്ഷത്തിൽ പറയുകയാണെങ്കിൽ അതിന് എല്ലായിടത്തും സ്ഥിരമായ ദൈർഘ്യമുണ്ട് ഏത് സ്ഥലത്താണ് ഞാൻ ഈ പ്ലോട്ട് ചെയ്താലും ഈ വെക്റ്റർ ഫീൽഡ് ഇത് ശരിയാണ് അത് യഥാർത്ഥത്തിൽ എവിടെനിന്നും വ്യതിചലിക്കുകയല്ല ഒരേ രീതിയിൽ പോകുന്ന എല്ലായിടത്തും സ്ഥിരമായ വേഗതയിൽ ഒഴുകുന്ന ഒരു നദി പോലെ ഒഴുകുന്നു അതിനാൽ ഈ വെക്റ്റർ ഫീൽഡിന്റെ വ്യതിയാനം ഞാൻ ഇവിടെ എടുക്കുമ്പോൾ നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ആദ്യ രണ്ട് തിരിവുകൾ മാത്രമാണ് 0 എനിക്ക് ഇത് അവശേഷിക്കുന്നു അതായത് 0 അടുത്ത ഉദാഹരണം നദി പോലെയാണ് z ദിശയിലൂടെ പോകുമ്പോൾ അത് വേഗതകൂടുന്നു അതിനാൽ അതായത് ഇവിടെ കാണുന്ന ഈ z അക്ഷം പൂജ്യത്തിനു തുല്യം ആണ് ഇത് ഏത് ദിശയിലേക്കാകാം പോകുന്നത് ആദ്യത്തെ ഘട്ടത്തിൽ z ന്റെ അളവ് വളരെ ചെറുതും നെഗറ്റിവ് z ലേക്ക് അടുക്കുന്തോറും വ്യാപ്തി വ്യത്യാസപെടുകയും ചെറുതാവുകയും ചെയുന്നു ഈ വെക്റ്റർ ഫീൽഡിന് അത് വ്യതിചലിക്കുന്ന ഒരു അവബോധജന്യമായ ആശയം ഉണ്ട് അതിനാൽ ഇവിടെയുള്ള വ്യത്യാസം ഞാൻ വീണ്ടും കണക്കാക്കുമ്പോൾ ഈ രണ്ട് ആളുകളും ഒന്നും സംഭാവന ചെയ്യാൻ പോകുന്നില്ല എനിക്ക് യൂണിറ്റ് വ്യത്യാസമുണ്ട് അതിനാൽ ഒരു വെക്റ്റർ ഫീൽഡിൽ വളരെ നല്ല ജ്യാമിതീയ അവബോധം നൽകുന്നു ഒരു വെക്റ്റർ ഫീൽഡ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് അളവെടുക്കാനുള്ള വഴികൾ നേടാൻ നമ്മൾ ശ്രമിക്കുന്നു അതിനാൽ ഭിന്നതയാണ് ഇവിടെയുള്ള ആദ്യത്തെ ഉപകരണം പലിശയുടെ അടുത്ത അളവ് ചുരുൾ ആണ് അതിനാൽ ചുരുൾ എന്നത് ക്രോസ് ഉൽപ്പന്നത്തിന്റെ സാമാന്യവൽക്കരണമാണ് രണ്ട് വെക്റ്ററുകൾക്കിടയിൽ നമ്മൾ എങ്ങനെയാണ് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്നതെന്ന് പോലെ ഇവിടെയും ആദ്യത്തെ ഘടകങ്ങൾ എഴുതുമ്പോൾ x y z എഴുതുന്നു താഴത്തെ നിരയിലേക്ക് പോകുന്നു ശെരി ഇനി നമുക്ക് എഴുതാമല്ലോ കാരണം നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ക്രോസ്സ് പ്രോഡക്റ്റ് അറിയാം അതായത് ഞാൻ ഇത് ഇനി എഴുതേണ്ടതായി ഉണ്ട് അത് നമുക്ക് ബ്രാക്കറ്റ് ഫോമിൽ എഴുതാം ഇതിലെ ആദ്യത്തെ ഘടകം ആണ് അടുത്ത ഘടകം ദിശയിലും മൂന്നാമത്തെ അളവ് z ദിശയിലും ആണ് അതായത് ഇവിടെയുള്ള അളവ് ആണ് മനസിലായിക്കാണും ഇത് ചെയ്യാനുള്ള ഒരു ചക്രീയ മാർഗം ആണ് ഇത് ഇപ്പോൾ ഞാൻ ഈ വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നതും ഈ വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നതും തമ്മിൽ ഉള്ള വ്യത്യാസം നോക്കി കാണാം ഇത് കൂടുതൽ മനസിലാക്കാൻ നിങ്ങൾ സ്വയം കുറച്ചു ഉദാഹരണങ്ങൾ പ്രാക്ടീസ് ചെയ്യൂ ഇപ്പോൾ ഡൈവേർജൻസ് ഓപ്പറേറ്ററിൽ നിന്ന് വ്യത്യസ്തമായി ചുരുൾ ഓപ്പറേറ്റർ ഒരു വെക്റ്റർ എത്രമാത്രം കറങ്ങുന്നു അല്ലെങ്കിൽ ഒരു ബിന്ദുവിനെക്കുറിച്ച് എത്രമാത്രം വളയുന്നു എന്ന് അളക്കുന്നു അതിനാൽ വീണ്ടും നദിയുടെ സാദൃശ്യം നിലനിർത്തുക എനിക്ക് ചുഴലിക്കാറ്റിനുള്ള സ്ഥലമായ ഒരു വെള്ളത്തിന്റെ ചുഴി ഉണ്ടെങ്കിൽ അതിനാൽ ഒരു വെക്റ്റർ ഫീൽഡ് എത്രമാത്രം കറങ്ങുന്നുവെന്ന് അളക്കുന്ന ഒന്നാണ് ചുരുൾ അതിനാൽ ഞാൻ ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ എടുത്താൽ അതിനാൽ ആദ്യ ഉദാഹരണത്തിൽ മുമ്പത്തെ ഉദാഹരണത്തിൽ എനിക്ക് ഉണ്ടായിരുന്ന അതേ വെക്റ്റർ ഫീൽഡാണ് ആദ്യ ഉദാഹരണം അതിനാൽ ഉത്ഭവത്തിൽ നിന്ന് റേഡിയലായി പുറത്തേക്ക് പോകുന്നു അതിനാൽ ഇത് എങ്ങനെയെങ്കിലും കറങ്ങുന്ന ഒരു വെക്റ്റർ ഫീൽഡ് പോലെ കാണപ്പെടുന്നുണ്ടോ അവ ബോധപൂർവ്വം ഇല്ല അത് എന്തായാലും കറങ്ങുന്നതായി തോന്നുന്നില്ല അതിനാൽ നമുക്ക് നമ്മുടെ അവബോധം സ്ഥിരീകരിക്കാം ഒരു ഓവറിന്റെ ചുരുൾ ഇവിടെ കണക്കാക്കാം അതിനാൽ നമുക്ക് കാണാൻ കഴിയുന്ന ആദ്യത്തെ ഘടകം ഈ വ്യക്തിയാണ് അതിനാൽ A z എന്നാൽ z ആണ് Z ആണ് അതായത് Z ന്റെ വില 0 ആണ് സമാനമായി Ay എന്നാൽ y ഇതും 0 ആണ് Ax എന്നാൽ x അതായത് 0 അതായത് എനിക്കിപ്പോൾ ഇവിടെ ലഭിക്കാൻ പോകുന്നത് ഒരു വലിയ പൂജ്യം ആണ് ഇതാണ് 0 വെക്ടർ മാത്രമല്ല ഇവിടെ ഉള്ള വെക്ടർ ഫീൽഡ് കറങ്ങുന്നതല്ല ഇത് വ്യതിയാനപ്പെടുക മാത്രമാണ് ചെയുന്നത് ഇതിനെ മറ്റൊരു രീതിയിൽ വീക്ഷിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു പാഡിൽ പോലെ തിരിയാൻ ആരംഭിക്കുന്നു ഞാൻ ഇവിടെ ഒരു ചെറിയ പാഡിൽ വച്ചാൽ അത് വെറുതെ പുറത്തേക്ക് തള്ളൂന്നതായി കാണാം അതായത് ഇവക്ക് ഇതുപോലെ സ്വന്തം ആക്സിസിൽ കറങ്ങാൻ സാധിക്കുന്നില്ല ഇനി ഇവിടെ മറ്റൊരു ഉദാഹരണം നോക്കാം നോക്ക് ഇതാണ് xy പ്രഥലം നോക്ക് ഈ വെക്ടർ ഫീൽഡ് ഇപ്പോൾ എങ്ങനെ ഉണ്ട് കാണാൻ ഉദാഹരണത്തിലേക്ക് വരുകയാണെങ്കിൽ എല്ലാ ബിന്ദുക്കളിലും x അക്ഷം ഇവിടെയാണ് ഈ ഒരു അളവിൽ ആണ് ഞാൻ ഈ ഫീൽഡിൽ വരക്കുന്നത് ഉദാഹരണം പോലെ നമുക്ക് ഒരു ബിന്ദു എടുക്കാം ഇതിനെ നമുക്ക് 1 0 മനസ്സിലായോ ഈ 10 എന്ന വെക്ടരിന്റെ ഘടങ്ങൾ എന്തെല്ലാമാണ് 010 അല്ലെ അതായത് ഈ ഒരു വെക്ടർ ഏതൊരു യൂണിറ്റ് നീളത്തിന്റെ ദിശയിലേക്ക് ആണ് സൂചന നൽകുന്നത് Y ഹാറ്റ് അല്ലെ ഇനി നമുക്ക് ഈ ഒരു ബിന്ദു നോക്കാം ഇതിലെ നമുക്ക് 11 എന്ന് വിളിക്കാം അതായത് x1 ക്കു തുല്യമാണ് y യും 1 ന് തുല്യമാണ് അങ്ങനെ എങ്കിൽ ഇത് ഏത് ദിശയിലായിരിക്കും ഇവിടെ x ന്റെ ഘടകങ്ങൾ 110 അല്ലെ അതായത് x ഘടകം നെഗറ്റിവ് ആണ് y ഘടകം പോസിറ്റീവ് ഉം അപ്പോൾ ഇത് 45 ഡിഗ്രി അളവ് കാണിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഇത് വരയ്ക്കുന്നത് തുടരാം നിങ്ങൾക്ക് ഇതുപോലൊന്ന് ലഭിക്കാൻ പോകുന്നു ഇത് ഒരു കറങ്ങുന്ന വലത്തിന്റെ പാഠപുസ്തക ഉദാഹരണമാണ് അതിനാൽ വീണ്ടും നമുക്ക് വ്യതിയാനം കണക്കാക്കാം ഇവിടെ ഈ വെക്റ്റർ ഫീൽഡിന്റെ ചുരുളിലേക് ഇവിടെയുള്ള ആദ്യത്തെ ഘടകം നമുക്ക് എടുക്കാം അതിനാൽ 0 ശരിയാണ് അതിനാൽ ഈ പദം 0 x ഇപ്പോൾ 0 ആണ് അതിനാൽ ആദ്യ ഘടകം 0 ആണ് ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഘടകത്തിലേക്ക് പോകാം Student മൈനസ് is y ആണ് എന്നാൽ z നെ സംബന്ധിച്ചുള്ള ഡെറിവേറ്റീവ് 0 ആണ് 0 ആണ് അതിനാൽ ഈ പദവും 0 ആകുന്നു അതിനാൽ നമ്മുടെ അവബോധം പ്രശ്നത്തിലാണോ എന്ന് നോക്കാം അതിനാൽ നമുക്ക് ഇവിടെ മൂന്നാമത്തെ ടേം x ശരിയാണ് ഇപ്പോൾ അത് 1 മൈനസ് ആണ് മറ്റേ പദം y ശരി ആണ് വിദ്യാർത്ഥി മൈനസ് 1 വർഷം മൈനസ് 1 ശരി അതിനാൽ മൈനസ് മൈനസ് ആയി മാറുന്നു വിദ്യാർത്ഥി പ്ലസ് ശെരി ഇത് 2 ആയി മാറുന്നു അതായത് ഇത് പൂജ്യം അല്ല അല്ലേ ഇത് നിങ്ങൾക്ക് പരിചിതമായ വലുകൈ ചുരുൾ പെരുവിരൽ നിയമംആണ് ഇവിടെ ഈ ചുരുൾ സൂചിപ്പിക്കുന്നത് വെക്ടോറിന്റെ പൂജയമല്ലാത്ത ഭാഗമാണ് അതായത് ഇതാണ് ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്ന ഫീൽഡ് നമുക്ക് മാറ്റൊരു ഉദാഹരണം നോക്കാം x y പ്രഥലം തന്നെ എളുപ്പത്തിനായി നമുക്ക് എടുക്കാം ഇനി ഈ വെക്ടർ ഫീൽഡ് എങ്ങനെ കാണുന്നു ഇവിടെ നമ്മൾ എടുക്കുന്ന പോയിന്റുകൾ 10 ആണ് ഇനി മൊത്തം x ആക്സിസിനെ പറ്റി എന്താണ് തോന്നുന്നത് ക്ഷമിക്കണം y ആക്സിസ് ഇവിടെ x 0 ആണ് ഇവിടെ ഫങ്ക്ഷൻ 0 ആണെന് കരുതുക മാത്രമല്ല ഞാൻ കൂടുതൽ ഉയർന്ന മൂല്യങ്ങളിലേക്ക് പോകുന്തോറും ഇത് വലുതാവുന്നു ഇനി നജ്ൻ ചെറിയ മൂല്യങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ ഉള്ള ബിന്ദു എങ്ങനെയായിരിക്കും അത് താഴേക്ക് ആയിരിക്കും ദിശ കാണിക്കുന്നത് കരണം x നെഗറ്റിവ് ആണ് അല്ലേ പക്ഷെ ഇത് എപ്പോഴും കാണിക്കുന്നത് plus y ദിശയിൽ ആണ് മനസ്സിലായോ അപ്പോൾ ഇവിടെ ദിശ നിശ്ചയിക്കപ്പെട്ടു അപ്പൊ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഉദാഹരണം ശെരി ഇനി നമുക്ക് ഒന്നുകൂടി കണക്ക് കൂട്ടി നോക്കാം അപ്പൊ നിങ്ങളുടെ ആശയം എന്താണ് ഇത് കറങ്ങുമോ ഇല്ലയോ ഇത് കറങ്ങില്ല അല്ലേ ശെരി നമുക്ക് ഇതിന്റെ ഉത്തരം നോക്കാം ഇവിടെ ആദ്യത്തെ ഘടകം ആയ 0 ആണ് 0 ആണ് x ആണ് അതായത് ഈ term 0 ആണ് സമാനമായി രണ്ടാമത്തെ term ഉം 0 ആണ് വീണ്ടും എനിക്ക് ഇവിടെ ഒരു 0 ഉണ്ട് ഇവിടെ മൂന്നാമത്തെ term ആണ് രസകരമായത് ശ്രദ്ധിക്കു x ആണ് dx 1 0 ആണ് അതായത് ഇത് 1 ആണ് ശെരി ശെരി ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ചുരുൾ ഉണ്ടാകുന്നതായി കാണാം അതായത് ഇവിടെ ഈ ദിശയിൽ ബിന്ദുക്കൾ ഉണ്ട് ഞാൻ ഇവിടെ ഇതുപോലെ ഒരു പാഡിൽ വച്ചു എന്ന് കരുതുക നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ പാഡിൽ ഇവിടെയുള്ള ബലത്തിൽ കറങ്ങുന്നത് അപ്പോൾ നമ്മുടെ വെക്ടർ ഫീൽഡിൽ ഒരു കറക്കം ഉണ്ട് എന്നുള്ള അവബോധം ശെരിയായിരുന്നു അതായത് ഈ ചുരുളിന്റെ മൂല്യം പൂജ്യം അല്ല ശെരി നമുക്ക് അറിയാം കാലങ്ങളായി ചുരുൾ വ്യതിയാനം എന്നെല്ലാം ഉള്ള വാക്കുകൾ ഹൈ സ്കൂൾ തൊട്ട് തന്നെ നമ്മുക്ക് പേടിയുള്ള വാക്കുകൾ ആണ് പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കാണാം അവക്ക് വളരെ ലളിതമായ ജ്യാമീതീയ അർത്ഥങ്ങൾ ആണ് ഉള്ളത് എന്ന് ഇങ്ങനെ എലെക്ട്രോ മാഗ്നെറ്റിക്സ്ന്റെ സമവാക്യം വളരെ ലളിതമായി എഴുതാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് വളരെ സംതൃപ്തി തരുന്നുണ്ടല്ലോ അല്ലേ